ഹലോ സെക്യുർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം മുമ്പത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ ആർക്കിടെക്ചറൽ ആക്രമണങ്ങൾ പരിശോധിച്ചിരുന്നു ഫ്ലഷ് ആൻഡ് റീലോഡ് പ്രൈം ആൻഡ് പ്രോബ് കാഷെ മെമ്മറി ഉപയോഗിക്കുന്ന മറ്റ് ടൈമിംഗ് ആക്രമണങ്ങൾ എന്നിവ നമ്മൾ പരിശോധിച്ചിരുന്നു ഈ വീഡിയോ ക്ലാസ്സിൽ താരതമ്യേന പുതിയ എന്തെങ്കിലും നോക്കാം ഇത് speculation attacks എന്നറിയപ്പെടുന്നു ഈ ആക്രമണങ്ങൾ പ്രധാനമായും ചില സവിശേഷതകളുള്ള ഇന്റലിനെ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ലക്ഷ്യം വച്ചുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്ന features ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷനും speculation എക്സിക്യൂഷനുമാണ് കൂടാതെ ഈ ആക്രമണങ്ങൾ ബ്രാഞ്ച് പ്രെഡിക്ടറിന്റെ സവിശേഷതകളും ഉപയോഗിക്കുന്നു ഇത് ആധുനിക മൈക്രോപ്രൊസസ്സറുകളിൽ പലതിലും കാണപ്പെടുന്ന സാധാരണ ഹാർഡ്വെയറാണ് അതിനാൽ ഈ ആക്രമണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് speculation ന്റെ അർത്ഥമെന്താണെന്നും speculation നുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ പദങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നും ഒരു ഹ്രസ്വ പശ്ചാത്തലം നൽകാം ഈ നിർദ്ദേശങ്ങൾ നോക്കാം ഇവിടെ ഞങ്ങൾക്ക് 5 നിർദ്ദേശങ്ങളുണ്ട് ഇതാണ് കംപൈലർ യഥാർത്ഥത്തിൽ ജനറേറ്റുചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ അസംബ്ലിയിൽ കോഡ് എഴുതുകയാണെങ്കിൽ ഈ പ്രത്യേക രീതിയിൽ കോഡ് എഴുതുമായിരുന്നു നിങ്ങൾ ഇവിടെ കാണുന്നത് 5 നിർദ്ദേശങ്ങളാണ് അവ load move add store subtract എന്നിവയാണ് അവയെല്ലാം വ്യത്യസ്ത രജിസ്റ്ററുകളിൽ പ്രവർത്തിക്കുന്നു ഓരോ നിർദ്ദേശത്തിനും ടാർഗെറ്റ് രജിസ്റ്ററുകളായ r0 r2 r1 r4 എന്നീ രജിസ്റ്ററുകൾ ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ നിർദ്ദേശത്തിന്റെ result സംഭരിച്ചിരിക്കുന്ന രജിസ്റ്ററുകളാണ് ഇവ ഈ നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്തെന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഓരോന്നും കൃത്യമായി ഈ ക്രമത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അതായത് ആദ്യം load ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു തുടർന്ന് move add store subtract എന്നിവ ഈ നിർദ്ദേശങ്ങൾ പുന ക്രമീകരിക്കുകയാണെങ്കിൽ ഇവയുടെ പ്രകടനത്തിൽ ഇത് കൂടുതൽ ഗുണം ചെയ്യുംഎന്നു കാണാം ഉദാഹരണത്തിന് load നിർദ്ദേശം പ്രധാന മെമ്മറിയിൽ നിന്നോ കാഷെ മെമ്മറിയിൽ നിന്നോ ഒരു പ്രത്യേക address access ചെയ്യുന്നതിന് ഈ load നിർദ്ദേശം move add എന്നിവ പോലുള്ള മറ്റ് നിർദ്ദേശങ്ങളേക്കാൾ കൂടുതൽ സമയമെടുക്കും എന്ന് നമുക്ക് അറിയാം load നിർദ്ദേശങ്ങളിലെയും തുടർന്നുള്ള നിർദ്ദേശങ്ങളിലെയും ആർഗ്യുമെന്റുകൾ തമ്മിൽ പരപരസ്പര ആശ്രിതത്വം ഇല്ലാതിരിക്കുന്നന്നിടത്തോളം പ്രോഗ്രാമിൽ വ്യക്തമാക്കിയതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ക്രമത്തിൽ പ്രോസസ്സറിന് ഈ നിർദ്ദേശങ്ങൾ execute ചെയ്യാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ നിർദ്ദേശങ്ങൾ out of order രീതിയിൽ നടപ്പിലാക്കിയാൽ പോലും പ്രോസസറിന് ശരിയായ result നേടാൻ കഴിയും രണ്ടാമത്തെ ചിത്രത്തിൽ പ്രോസസ്സറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിക്കുന്നു നിർദ്ദേശങ്ങൾ out of order ആയി നടപ്പിലാക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നു വാസ്തവത്തിൽ subtract നിർദ്ദേശം ആദ്യം നടപ്പിലാക്കുന്നു തുടർന്ന് store നിർദ്ദേശവും മറ്റും ഉണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിർദ്ദേശങ്ങളെല്ലാം പരസ്പരം ആശ്രയിക്കാത്തതിനാൽ ഈ നിർദ്ദേശങ്ങളുടെ ക്രമം പ്രശ്നമല്ല പ്രോസസ്സറിൽ എക്സിക്യൂഷന്റെ അവസാനം results യഥാർത്ഥത്തിൽ ordered ആയിരിക്കണം എന്നതാണ് പ്രധാനം നിങ്ങൾ ഈ result സെറ്റ് അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളുടെ result നോക്കിയാൽ അത് ഈ നിർദ്ദേശങ്ങളുടെ യഥാർത്ഥ ക്രമവുമായി പൊരുത്തപ്പെടുന്നുവെന്നു നമുക്ക് കാണാം ഉദാഹരണത്തിന് r0 ആണ് ഈ loadന്റെ ലക്ഷ്യസ്ഥാനം അതാണ് ഈ മെമ്മറി വിലാസവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ r0 ലേക്ക് load ചെയ്തത് അതുപോലെ തന്നെ r0 തിരികെ മടങ്ങുന്ന ആദ്യ ഫലവുമാണ് ഈ പ്രത്യേക സ്ലൈഡിൽ നമ്മൾ കാണുന്നതെന്തെന്നാൽ ഒരു പ്രോഗ്രാം ഒരു പ്രത്യേക രീതിയിൽ return ചെയ്യുന്നുണ്ടെങ്കിലും അത് out of order എന്ന് അറിയപ്പെടുന്ന ഏത് രീതിയിലും നടപ്പിലാക്കാൻ കഴിയും എന്നതാണ് എന്നാൽ ഒടുവിൽ പ്രോസസ്സർ ഓർഡർ പുനസ്ഥാപിക്കുന്നതിനാൽ results അല്ലെങ്കിൽ രജിസ്റ്ററുകൾ പ്രോഗ്രാമിന്റെ യഥാർത്ഥ value മായി പൊരുത്തപ്പെടും ഞങ്ങൾ ഇവിടെ നിരീക്ഷിക്കുന്നത് ഇവിടെ ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ ഉണ്ടെങ്കിലും പ്രോഗ്രാമിന്റെ result സമാനമായിരിക്കും ഇന്നത്തെ പല മൈക്രോപ്രൊസസ്സറുകളിൽ പ്രചാരത്തിലുള്ള മറ്റൊരു സവിശേഷത speculative execution നാണ് പ്രോസസറിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് speculative execution പ്രധാനമായും ഉപയോഗിക്കുന്നു നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം മുമ്പത്തെപ്പോലെ നമുക്ക് ഒരു കൂട്ടം നിർദ്ദേശങ്ങളുണ്ട് ഈ ഉദാഹരണത്തിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇതാണ് jnz ഇത് ഒരു ലേബലിലേക്കുള്ള jump ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത് ഈ comaprison നിർദ്ദേശത്തെ ആശ്രയിച്ച് r0 r1 ന് തുല്യമാണെങ്കിൽ പ്രോസസ്സറിനുള്ളിൽ zero flag set ആവുകയും അതിന്റെ ഫലമായി ഈ jump സംഭവിക്കില്ല പകരം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് തുടരും മറുവശത്ത് r0 r1 ന് തുല്യമല്ലെങ്കിൽ zero ഫ്ലാഗ് reset ആവുകയും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ zero ഫ്ലാഗ് 0 ന് തുല്യമായാൽ ഈ പ്രത്യേക check പ്രോഗ്രാം കൌണ്ടർ ഈ ലേബലിലേക്ക് jump ചെയ്തു ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കാരണമാവും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ zero ഫ്ലാഗിന്റെ മൂല്യം 1 ആയി സജ്ജമാക്കിയാൽ ഈ നിർദ്ദേശങ്ങൾ execute ചെയ്യാൻ ഇതു കാരണമാകും മറുവശത്ത് zero ഫ്ലാഗ് 0 ആണെങ്കിൽ ഈ ജമ്പ് നടക്കുകയും ലേബലിനെ പിന്തുടരുന്ന നിർദ്ദേശങ്ങൾ execute ചെയ്യുകയും ചെയ്യും perfomance വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ കാര്യത്തിൽ പ്രശ്നം വരുന്നത് ഇതുപോലൊരു jump നടക്കുമ്പോഴെല്ലാം പ്രോസസ്സറിൽ ആന്തരികമായി സംഭവിക്കുന്നത് മുഴുവൻ പൈപ്പ്ലൈനും ഫ്ലഷ് ആകുകയും ലേബലിനെ പിന്തുടരുന്ന ഈ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ പുതിയ നിർദ്ദേശങ്ങൾ മെമ്മറിയിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ വിപുലമായതോ വളരെ പ്രചാരമുള്ളതോ ആയ സമീപകാല മൈക്രോപ്രൊസസ്സറുകൾക്ക് ഗണ്യമായ വലിയ പൈപ്പ്ലൈൻ ആണ് ഉള്ളത് അതിന്റെ ഫലമായി പൈപ്പ്ലൈനിൽ നൂറുകണക്കിന് നിർദ്ദേശങ്ങൾ ഉണ്ടാകും മറ്റൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഇതുപോലുള്ള ഒരു ബ്രാഞ്ച് ഉണ്ടാകുമ്പോഴെല്ലാം ഈ പൈപ്പ്ലൈൻ മുഴുവൻ ഫ്ലഷ് ആകുകയും ടാർഗെറ്റ് മെമ്മറിയിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ fetch ചെയ്യുകയും വേണം ഇത് പ്രകടനത്തെ സാരമായി ബാധിക്കും ഈ ഓവർഹെഡുകൾ കുറയ്ക്കുന്നതിന് മൈക്രോപ്രൊസസ്സറുകൾ ചെയ്യുന്നത് ഒരു ജമ്പ് നിർദ്ദേശത്തിന്റെ ഫലത്തെക്കുറിച്ച് അവർ ഊഹിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് ഈ ജമ്പിനെ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ തുടർച്ചയായ നിർദ്ദേശങ്ങളാണെന്ന് പ്രോസസർ അനുമാനിക്കും അതിനാൽ ഇത് മെമ്മറിയിൽ നിന്ന് ഈ നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുകയും അവ ഒരു ഊഹത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്യും ഇതിനർത്ഥംജമ്പ് നിർദ്ദേശത്തിന്റെ result അറിയുന്നതുവരെ ഈ നിർദ്ദേശങ്ങളുടെ results commit ചെയ്യില്ല എന്നതാണ് ഈ പ്രത്യേക കേസ് നമുക്ക് പരിഗണിക്കാം ഒന്നാമതായി പ്രോസസറിനുള്ളിൽ jnz ഇൻസ്ട്രക്ഷനെ പിന്തുടരുന്ന നിർദ്ദേശങ്ങൾ മെമ്മറിയിൽ നിന്ന് ലഭ്യമാക്കുകയും അത് ഒരു ഊഹത്തോടെ നടപ്പിലാക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ r0 r1 താരതമ്യം ചെയ്യുമ്പോൾ r0 r1 ന് തുല്യമാണെന്ന് കരുതുക അതിന്റെ ഫലമായി zero ഫ്ലാഗ് set ആവും ഇപ്പോൾ ഈ പ്രത്യേക നിർദ്ദേശം പരാജയപ്പെടും അപ്പോൾ അതിനെ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നാൽ പ്രോസസറിനുള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതാണ് എന്നാൽ ഈ നിർദ്ദേശങ്ങളുടെ results committed ആയിരിക്കണം എന്നതാണ് വസ്തുത jnz ന്റെ result ലഭിച്ചുകഴിഞ്ഞാൽ പ്രോസസർ ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ അത് ഊഹിച്ചത് ശരിയാണ് പ്രോസസർ results മാത്രമേ നൽകേണ്ടതുള്ളൂ വിവിധ രജിസ്റ്ററുകളായ r0 r2 add2 r4 എന്നിവയുമായി ബന്ധപ്പെട്ട results യഥാർത്ഥത്തിൽ commit ചെയ്തതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ compare അല്ലെങ്കിൽ jnz ന്റെ execution പൂർത്തിയാക്കുന്നതിന് മുമ്പുതന്നെ പ്രോസസ്സറിന് യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങൾ ഊഹിച്ചു നടപ്പിലാക്കാൻ കഴിഞ്ഞു തുടർന്ന് jnz ന്റെ result താരതമ്യം ചെയ്ത് മാത്രമേ ഈ നിർദ്ദേശങ്ങൾ commit ചെയ്യൂ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം r0 r1 ന് തുല്യമാകുമ്പോൾ നിർദ്ദിഷ്ട ഉദാഹരണത്തിന് ഇത് നന്നായി പ്രവർത്തിക്കും എന്നാൽ r0 r1 ന് തുല്യമല്ലാത്തപ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ അതായത് r0 r1 ന് തുല്യമല്ലാത്തപ്പോൾ zero ഫ്ലാഗ് പൂജ്യമായി set ആവുകയും jnz ലേബൽ കഴിഞ്ഞു വരുന്ന ഈ നിർദ്ദേശങ്ങളിലേക്ക് എക്സിക്യൂഷൻ കൈമാറ്റം ചെയ്യപ്പെടുമെന്നും നമുക്കറിയാം രണ്ടാമത്തെ condition ൽ ഈ നിർദ്ദേശങ്ങൾ ഊഹത്തോടെ നടപ്പിലാക്കിയതിനാൽ പ്രോസസർ ഇതു തെറ്റാണെന്നും ഈ നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടതില്ലെന്നും മനസ്സിലാക്കും അതിനാൽ കിട്ടിയ results ഉപേക്ഷിക്കുകയും ലേബൽ കഴിഞ്ഞുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് നിർവ്വഹണം തുടരുകയും ചെയ്യുന്നു Speculation ന് പ്രോഗ്രാമിന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് ഞങ്ങൾ കാണുന്നത് r0 r1 ന് തുല്യമാകുമ്പോൾ പ്രോസസർ ശരിയായി എക്സിക്യൂട്ട് ചെയ്യുകയും ഒരു മികച്ച പ്രകടനം നേടാനും കഴിയും കാരണം speculation നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ വളരെ വേഗതയിൽ ചെയ്യാനാകും മറുവശത്ത് ഈ speculation തെറ്റായാൽ അതായത് r0 r1 ന് തുല്യമല്ലെങ്കിൽ എല്ലാ speculation നിർദ്ദേശങ്ങളും result ഉം ഉപേക്ഷിക്കുകയും perfomance ഓവർഹെഡ് ഉണ്ടാവുകയും ചെയ്യും എല്ലാ ആധുനിക പ്രോസസ്സറുകളും അവരുടെ പ്രകടനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് speculation ഉപയോഗിക്കുന്നു Speculation ഉപയോഗിക്കുന്ന മറ്റൊരു രീതി ഇത്തരത്തിലുള്ളതാണ് ഇവിടെ ഞങ്ങൾ ചെയ്തത് jnz label നിർദ്ദേശത്തെ r0r1 ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഇതു ക്രമരഹിതമാണ് മറ്റൊന്നു speculation ഉം എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഈ division നടപ്പിലാക്കുന്നതിന് മുമ്പുതന്നെ ഈ division കഴിഞ്ഞുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ r1 0 ക്കു തുല്യമാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകും അത്തരമൊരു സാഹചര്യത്തിൽ പൂജ്യം കൊണ്ട് ഒരു division നടക്കുകയും അതിന്റെ ഫലമായി പ്രോസസ്സർ ഒരു exception throw ചെയ്യുകയും ചെയ്യും അതായത് r1 0 ക്കു തുല്യമാണെങ്കിൽ speculation നിർവ്വഹിച്ച എല്ലാ നിർദ്ദേശങ്ങളും ഉപേക്ഷിക്കേണ്ടിവരും Refer Slide Time 1234 പ്രോസസ്സറിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ നേടുന്നതിന് ക്രമരഹിതമായ execution നും speculation നും നടപ്പിലാക്കാമെന്ന് 2018 ജനുവരിയിൽ നമ്മൾ കണ്ടു കോഡിന്റെ ഈ ചെറിയ snippet പരിഗണിക്കുക ഇവിടെ 3 നിർദ്ദേശങ്ങൾ നിലവിലുണ്ട് ഒന്ന് raise exception നിർദ്ദേശമാണ് ഉദാഹരണത്തിന് ഇത് divide r0 r1 ആണ് r1 0 ന് തുല്യമായാൽ ഡാറ്റ 4096 എന്ന ലൊക്കേഷൻ ഉള്ള ഒരു array ലേക്ക് മെമ്മറി ആക്സസ് ഉണ്ട് ഒരു സാധാരണ പ്രവർത്തനത്തിൽ ഈ രണ്ട് നിർദ്ദേശങ്ങളും വിലയിരുത്തിയാൽ എന്ത് സംഭവിക്കും എന്നാൽ raise exception കാരണം probe array ലേക്ക് ഈ മെമ്മറി ആക്സസ് ഒരിക്കലും സംഭവിക്കില്ല ഈ ക്രമരഹിതമായ execution നും speculation നും കാരണം പ്രോസസറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിഗണിക്കുകയാണെങ്കിൽ probe array ലെ ഡാറ്റ 4096 ലൊക്കേഷൻ execute ചെയ്യുകയും കൂടാതെ exeception നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോൾ probe arraydata 4096 ലെ results യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഈ പുതിയ ആക്രമണങ്ങൾ കാണിക്കുന്നത് speculation പ്രോസസറിന്റെ അവസ്ഥയെ സ്വാധീനിക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായി ഈ മെമ്മറി ആക്സസ് അല്ലെങ്കിൽ പ്രൊസസ്സറിന്റെ അവസ്ഥ കാഷെ മെമ്മറികളിലോ ബ്രാഞ്ച് predictor ലോ ആയിരിക്കാം അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസൃതമായി പരിഷ്കരിച്ചേക്കാം ഈ പ്രോഗ്രാം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഈ പ്രത്യേക ചിത്രം കാണിക്കുന്നു ഇവിടെ execute ചെയ്യുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളുണ്ട് അതിനുശേഷം ഒരു exception പ്രോസസ്സറിൽ ഇവ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്തുസംഭവിക്കും ഈ നിർദ്ദേശങ്ങളിൽ പലതും യഥാർത്ഥത്തിൽ speculative ഉം ക്രമരഹിതവുമാണ് exception നെ തുടർന്നുള്ള ഈ നിർദ്ദേശങ്ങളും ഒരു ഊഹത്തോടെ തന്നെ നടപ്പിലാക്കിയേക്കാം എന്നിരുന്നാലും ഇവിടെ നിലവിലുള്ള exception കാരണം ഊഹിച്ചു നടപ്പിലാക്കിയ നിർദ്ദേശങ്ങളുടെ results ഉപേക്ഷിക്കപ്പെടും ഊഹത്തോടെ നടപ്പിലാക്കിയ ഈ നിർദ്ദേശങ്ങൾക്ക് മെമ്മറി ആക്സസ്സിനുള്ളിൽ ഒരു signature ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ മെമ്മറി ആക്സസ് speculative ആയി ചെയ്യപ്പെടും കൂടാതെ പ്രോബ് അറേ ഡാറ്റ 4096 ന് സമാനമായ ഡാറ്റ മെമ്മറിയുടെ താഴത്തെ ഭാഗത്ത് നിന്ന് കാഷെ മെമ്മറിയിലേക്ക് ലോഡുചെയ്യും ഈ പ്രത്യേക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്തെന്നാൽ നിങ്ങൾ എക്സ് ആക്സിസിലെ പേജ് നമ്പറുകൾ നോക്കുകയാണെങ്കിൽ മെമ്മറി ആക്സസ് സമയം പ്രധാനമായും ഈ മെമ്മറി ആക്സസ് പ്രോബ് അറേയിലേക്ക് probe array മാറ്റുന്നു നമ്മൾ കാണുന്നത് speculation മൂലമുള്ള മെമ്മറി ആക്സസ് സമയം ഡാറ്റയുടെ മൂല്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ അൽപ്പം കുറവായിരിക്കാം എന്നതാണ് ഉദാഹരണത്തിന് ഡാറ്റ 84 ആണ് അതിനാൽ 84 ആം പേജിൽ മെമ്മറി ആക്സസ് സമയം വളരെ കുറവാണ് എന്നതാണ് നമ്മൾ കാണുന്നത് ഈ പ്രത്യേക സ്ലൈഡിൽ കാണാൻ കഴിയുന്നത് ഈ പ്രോഗ്രാമിലെ ഒന്നാമത്തെ വരിയിൽ ഉള്ള exception കാരണം മൂന്നാമത്തെ വരി ഒരിക്കലും execute ചെയ്യില്ല എന്നതാണ് എന്നിരുന്നാലും പ്രോസസ്സറിന്റെ മൈക്രോ ആർക്കിടെക്ചറൽ അവസ്ഥ ഈ മൂന്നാം വരിയിലെ മെമ്മറി ആക്സസ് വഴി പരിഷ്ക്കരിക്കപ്പെട്ടു ഇപ്പോൾ നമുക്ക് Meltdown നോക്കാം ഇത് 2018 ജനുവരിയിൽ കണ്ടെത്തിയ ഒരു ആക്രമണമായിരുന്നു കേർണൽ ന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രഹസ്യ ഡാറ്റ എങ്ങനെ ലഭിക്കുമെന്ന് ഇത് കാണിച്ചുതന്നു അതിനാൽ ആക്രമണം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഒരു പ്രക്രിയയുടെ വെർച്വൽ വിലാസം എന്താണെന്നു നോക്കേണ്ടതുണ്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതുപോലെ വിർച്വൽ വിലാസം രണ്ട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു നിങ്ങളുടെ സാധാരണ കോഡ് സ്റ്റാക്ക് ഹീപ്പ് മറ്റ് ഡാറ്റ സെഗ്മെന്റുകൾ എന്നിവയുള്ള ഒരു user space ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ഒരു പ്രത്യേക മെമ്മറി സ്ഥാനത്തിന് മുകളിൽ നിങ്ങൾക്ക് കേർണൽ സ്പേസ് ഉണ്ട് റിംഗ് 0 റിംഗ് 1 റിംഗ് 2 റിംഗ് 3 എന്നിവ പോലുള്ള വിവിധ പരിരക്ഷണ സംവിധാനങ്ങൾ user മോഡിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രോഗ്രാമിന് പ്രോസസിന്റെ user space മാത്രമേ നിരീക്ഷിക്കാൻ കഴിയൂ എന്ന് ഉറപ്പുനൽകുന്നു മറുവശത്ത് ഒരു സിസ്റ്റം കോൾ അഭ്യർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കേർണൽ സ്പെയ്സിലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ പ്രവർത്തിക്കുമ്പോൾ കേർണൽ സ്പേസ് യൂസർ സ്പേസ് എന്നിവയുൾപ്പെടെ മുഴുവൻ വിർച്വൽ വിലാസവും നിരീക്ഷിക്കാനാകും സാധാരണയായി 32 ബിറ്റ് ലിനക്സ് കേർണലിൽ ഈ അതിർത്തി 0xC0000000 എന്ന സ്ഥാനത്താണ് ഈ പ്രത്യേക സ്ഥാനത്തിന് മുകളിലുള്ള ഏത് മെമ്മറി വിലാസവും ഒരു കേർണൽ സ്പെയ്സും ഈ address ന് താഴെയുള്ള മെമ്മറി വിലാസം user സ്പെയ്സും ആണ് Meltdown ൽ സംഭവിച്ചത് എന്താണെന്നാൽ ലളിതമായ ഒരു ആക്രമണത്തിലൂടെ യഥാർത്ഥത്തിൽ speculation ന്റെ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഒരു user സ്പേസ് പ്രോഗ്രാമിന് കേർണൽ സ്പെയ്സിന്റെ ഉള്ളടക്കങ്ങൾ വായിക്കാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കേർണൽ സ്ഥലത്ത് നിലവിലുള്ള കോഡും ഡാറ്റയും ഒരു user space ന് വായിക്കാൻ കഴിയും ആക്രമണം വളരെ ലളിതമാണ് ആക്രമണകാരി user space ൽ പ്രവർത്തിക്കുന്നു കൂടാതെ പ്രോഗ്രാമിൽ ഈ രണ്ട് വരികളും എഴുതിയിട്ടുണ്ട് ആദ്യ വരി i pointer എന്നാണ് ഇവിടെ ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ട് ഈ വേരിയബിൾ ഈ സ്ഥാനത്തേക്ക് point ചെയ്യുന്നു എന്നു കരുതുക ഇപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയിൽ ഇവിടെയുള്ള ഒരു array i 256 എന്ന location ൽ ആക്സസ്സുചെയ്യുന്നു അതിനാൽ ഈ രണ്ട് നിർദ്ദേശങ്ങളുടെയും അന്തിമഫലം ഈ പോയിന്ററിന് അനുസരിച്ച് അറേയുടെ ഒരു ഘടകം i എന്ന ഈ വേരിയബിളിലേക്ക് ലോഡുചെയ്യുന്നു എന്നതാണ് പ്രോസസർ ആർക്കിടെക്ചർ കാരണം ഈ പ്രത്യേക ലോഡ് നിർദ്ദേശം i 256 ന് അനുയോജ്യമായ array യിലെ ഉള്ളടക്കങ്ങൾ പ്രധാന മെമ്മറിയിൽ നിന്ന് വിവിധ കാഷെകളിലേക്ക് ലോഡുചെയ്യും കൂടാതെ നിലവിലുള്ള general purpose രജിസ്റ്ററുകളിലൊന്നിലേക്ക് ലോഡുചെയ്യുകയും ചെയ്യും രണ്ടാമത്തെ statement എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ arrayi 256 ന് സമാനമായ ഒരു പ്രത്യേക ബ്ലോക്ക് DRAM ൽ നിന്ന് കാഷെ മെമ്മറിയിലേക്ക് പകർത്തുകയും അനുബന്ധ general purpose രജിസ്റ്ററിലേക്ക് പകർത്തുകയും ചെയ്യും പ്രോഗ്രാമിന്റെ സാധാരണ പ്രവർത്തന സമയത്ത് സംഭവിക്കുന്നത് ഇതാണ് ഇപ്പോൾ കേർണൽ സ്പെയ്സിലേക്ക് പോയിന്റുചെയ്യുന്ന ഒരു പോയിന്റർ ഞങ്ങൾ ക്രാഫ്റ്റ് ചെയ്തുവെന്ന് നമുക്ക് പറയാം ആദ്യ പ്രസ്താവനയിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കേർണൽ സ്പെയ്സിൽ നിന്നും ചില contents i എന്ന ഈ വേരിയബിളിലേക്ക് ലോഡുചെയ്യുക എന്നതാണ് user ലെവൽ പ്രോഗ്രാമിൽ നിന്ന് കേർണൽ സ്പേസ് ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്ന് നമുക്കറിയാം ഇപ്പോൾ ഇത് ഒരു exception ന് ഇടയാക്കുകയും പ്രോഗ്രാം അവസാനിപ്പിക്കുകയും ചെയ്യും എന്നിരുന്നാലും പ്രോസസ്സറിന്റെ ഔട്ട് ഓഫ് ഓർഡറും speculation നും കാരണം രണ്ടാമത്തെ സ്റ്റേറ്റ് മെൻറ് ഒരു ഊഹത്തോടെ നടപ്പിലാക്കും തൽഫലമായി ഈ മെമ്മറി ലൊക്കേഷന്റെ value i ലേക്ക് read ചെയ്യുകയും arrayi 256 ആക്സസ് ചെയ്യുകയും ചെയ്യും അതിനാൽ ഡാറ്റയെ ആശ്രയിച്ചിരിക്കുന്നതും ഈ കേർണൽ സ്പേസ് മെമ്മറിയിൽ ഉള്ളതുമായ ഒരു location ലേക്ക് array ആക്സസ് ചെയ്യും ഞങ്ങൾ മുമ്പ് കണ്ടതുപോലെ array യിലുള്ള ഒരു ഡാറ്റബ്ലോക്ക് കാഷെയിലേക്ക് ലോഡുചെയ്യും ഇപ്പോൾ ഇവിടെ ആക്സസ് ചെയ്യുന്ന സെറ്റാണ് നിരീക്ഷിക്കേണ്ടത് ഈ കേർണൽ സ്പേസ് മെമ്മറി ലൊക്കേഷനിൽ നിലവിലുള്ള മെമ്മറികളുടെ value നെ ആശ്രയിച്ച് ഈ മെമ്മറി location അറേയിലേക്ക് index ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാൽ ഇൻഡെക്സ് ചെയ്ത ലൊക്കേഷൻ ഈ ഒന്നിലധികം സെറ്റുകളിൽ ഒന്ന് ആക്സസ്സുചെയ്യാം സാധാരണ സംഭവിക്കുന്നത് രണ്ടാമത്തെ ഓപ്പറേഷൻ സമയത്ത് ഈ സെറ്റുകളിൽ ഏതാണ് ആക്സസ് ചെയ്തതെന്ന് ഒരു ആക്രമണകാരിക്ക് നിർണ്ണയിക്കാൻ കഴിയുമെങ്കിൽ ആക്രമണകാരിക്ക് i യുടെ മൂല്യത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നേടാൻ കഴിയും ഇത് ചെയ്യുന്നതിന് ആക്രമണകാരി പ്രൈം ആൻഡ് പ്രോബ് എന്നിവ പോലുള്ളവ ഉപയോഗിക്കും മുമ്പ് ഏത് കാഷെ സെറ്റാണ് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചതെന്ന് കണ്ടെത്താൻ ആക്രമണകാരി എന്തുചെയ്യും ആക്രമണകാരി array യിലെ എല്ലാ ഘടകങ്ങളും ആക്സസ് ചെയ്യാൻ ആരംഭിക്കും പട്ടികയിലെ ആദ്യ ഘടകം കാഷെയിൽ ഇല്ലെന്നും അതിന്റെ ഫലമായി കാഷെ miss ഉണ്ടായതിനാൽ മെമ്മറി ആക്സസ്സ് സമയം വലുതായിരിക്കുമെന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആക്രമണകാരി രണ്ടാമത്തെ ഘടകത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് കാഷെയിൽ ലഭ്യമല്ലാത്തതിനാൽ ഇത് ഒരു കാഷെ miss നു കാരണമാവും മറുവശത്ത് ആക്രമണകാരി ഈ നിർദ്ദിഷ്ട മെമ്മറി ലൊക്കേഷനിൽ പ്രവേശിക്കുമ്പോൾ ഈ പ്രത്യേക ഘടകം കാഷെയിൽ ഉള്ളതിനാൽ ഇത് ഒരു കാഷെ ഹിറ്റ് ആയിരിക്കും ഈ പ്രത്യേക ലൊക്കേഷന്റെ മെമ്മറി ആക്സസ്സിനായി ആക്രമണകാരി ഈ കുറഞ്ഞ എക്സിക്യൂഷൻ സമയം ഉപയോഗിക്കും i യുടെ മൂല്യത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ കേർണൽ സ്പേസിലെ ഈ നിർദ്ദിഷ്ട മെമ്മറി സ്ഥാനത്ത് എന്താണുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നിർണ്ണയിക്കാൻ കഴിയും നിങ്ങൾ തിരിച്ചുപോയി ഈ പ്രത്യേക സ്ലൈഡ് നോക്കുകയാണെങ്കിൽ i യുടെ value 84 ആകുമ്പോൾ ഉള്ള എക്സിക്യൂഷൻ സമയം അത് ആ array യിലേക്കുള്ള മറ്റെല്ലാ മെമ്മറി ആക്സസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് എന്ന് കാണാം അതിനാൽ i യുടെ മൂല്യം ആക്രമണകാരിക്ക് അറിയാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ കേർണൽ സ്പേസ് മെമ്മറിയുടെ value 84 ആണ് ഈ രണ്ട് പ്രസ്താവനകളും കൈകാര്യം ചെയ്തുകൊണ്ട് കേർണൽ സ്പേസ് കോഡോ ഡാറ്റയോ വായിക്കാൻ ഒരു ആക്രമണകാരിക്ക് എങ്ങനെ ഇന്റൽ പ്രോസസറിന്റെ സവിശേഷതകൾ ഉപയോഗിക്കാമെന്ന് ഈ ലളിതമായ ഉദാഹരണം കാണിക്കുന്നു കൂടാതെ പ്രോസസ്സറിനെ ഒരു ഊഹത്തോടെ execute ചെയ്യാൻ നിർബന്ധിക്കുകയും തുടർന്ന് മെമ്മറി ആക്സസ് സമയം വിലയിരുത്തുന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് ഊഹിച്ചതെന്നു തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു